മുഖോപാധ്യായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് ഐഐടി ഖരഗ്പൂർ വിഷയ പ്രഭാഷണം 14 പിഐഡി കൺട്രോൾ ട്യൂണിംഗ് തുടരുന്നു കീവേഡുകൾ പിശക് ഓവർഷൂട്ട് സ്റ്റെപ്പ് റസ്പോൺസ് ഡികെയ് റേഷ്യോ സ്റ്റെപ്പ് വ്യത്യാസം ഓസിലേഷൻ ഇന്റഗ്രൽ സ്ക്വയർ പിശക് സുപ്രഭാതം ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് മാത്രമല്ല നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു മിക്കപ്പോഴും ആളുകൾക്ക് അവരുടെ മോഡൽ പെരുമാറ്റം ഇതുപോലെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞേക്കില്ല അല്ലെങ്കിൽ കൃത്യമായ റഫറൻസ് മോഡൽ നൽകാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ അത്തരമൊരു ലളിതമായ നടപടിക്രമം ആളുകൾ ചെയ്യുന്നതിന് എല്ലായ്പ്പോഴും ബാധകമാകില്ല ഒരു സമ്പൂർണ്ണ റഫറൻസ് മോഡൽ പ്രസ്താവിക്കുന്നതിനുപകരം അവർ പലപ്പോഴും ആ റഫറൻസ് മോഡലിന്റെ ചില പെരുമാറ്റ പാരാമീറ്ററുകൾ പ്രസ്താവിക്കുന്നു ഉദാഹരണത്തിന് ക്ലോസ്ഡ് ലൂപ്പ് മോഡലിന്റെ സ്റ്റെപ്പ് പ്രതികരണത്തിൽ എനിക്ക് ഒരു ഓവർഷൂട്ട് വേണമെന്ന് അവർക്ക് പറയാൻ കഴിയും ഓവർഷൂട്ട് സാധാരണയായി എന്തിനെക്കാളും താഴ്ന്നതാണെന്ന് പ്രസ്താവിക്കുന്നു ഒരുപക്ഷേ എനിക്ക് ഇത് പത്ത് ശതമാനത്തിൽ താഴെയുള്ള ഓവർഷൂട്ട് ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് വളരെയധികം സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് താഴെയുള്ള സമയം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനർത്ഥം ഞാൻ ഒരു സ്റ്റെപ്പ് മാറ്റം വരുത്തിയാൽ അത് വേഗത്തിൽ ആ മൂല്യത്തിലേക്ക് ഉയരും എന്നാണ് സെറ്റിലിംഗ് സമയത്തേക്കാൾ കുറവാണ് എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അതായത് സെറ്റിലിംഗ് സമയത്തിന് ശേഷം നമുക്ക് ഏതാണ്ട് പൂജ്യം പിശക് ലഭിക്കും ചിലപ്പോൾ എനിക്ക് ഒരു നിശ്ചിത അളവ് ഡികെയ് റേഷ്യോ വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ എന്താണ് ഡികെയ് റേഷ്യോ സാധാരണ സ്റ്റെപ്പ് പ്രതികരണം ക്ലോസ്ഡ് ലൂപ്പ് പ്ലാന്റിന് അണ്ടർ ഡാംപ്പഡ് പ്രതികരണം ഉണ്ടാക്കും അതിനാൽ നമ്മളുടെ ആവശ്യകതകൾ ഓവർഷൂട്ടിന്റെ നിബന്ധനകളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഇത് ആദ്യത്തേതാണ് ഇത് ഏകദേശം പത്തു ശതമാനം മുതൽ തൊണ്ണൂറു ശതമാനം വരെ ഉയരുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഈ സമയം ഏതാണ് ഇത് ഒരു നിശ്ചിത സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഏതാണ് ഈ സമയം അല്ലെങ്കിൽ ഇത് ഒരു ഡികെയ് റേഷ്യോ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഇത് ആദ്യ ഓവർഷൂട്ടിന്റെ അനുപാതത്തെ രണ്ടാമത്തെ ഓവർഷൂട്ടിനുള്ള അനുപാതമാണെന്ന് പറയുന്നു ഈ പദം ഇതിനാൽ വിഭജിച്ചിരിക്കുന്നു ഇപ്പോൾ ഡികെയ് റേഷ്യോ ചെറുതാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആദ്യ ഓവർഷൂട്ട്overshoot ഉണ്ടെങ്കിൽ പോലും അത് വളരെ വലുതാണ് പക്ഷേ അത് വേഗത്തിൽ താഴുന്നു രണ്ടാമത്തെയും ആദ്യത്തെയും പദങ്ങൾ തമ്മിലുള്ള അനുപാതം 25 ആണ് ആവശ്യമെങ്കിൽ അത് നാലിലൊരുഭാഗം14 ആയിരിക്കും മൂന്നാമത്തേത് മുതൽ രണ്ടാമത്തേത് വീണ്ടും നാലിലൊരുഭാഗം14 ആയിരിക്കും അതിനാൽ നിങ്ങളുടെ പിശക് അതിവേഗം പൂജ്യമായി മാറുന്നു എന്നാണ് ഇതിനർത്ഥം ചില അർത്ഥത്തിൽ ഇത് നല്ലതാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലാത്തപക്ഷം മറ്റ് പല കൺട്രോളർ ഡിസൈനുകളിലും സ്ഥിരത എന്നത് ഒരു പരിഗണനയാണ് മാത്രമല്ല നമുക്ക് അറിയപ്പെടുന്ന ഗെയിൻ മാർജിനുകളും ഘട്ടം മാർജിനുകളും ഉണ്ട് ഇവ അടിസ്ഥാനപരമായി പരിരക്ഷകളാണ് പ്രോസസ്സ് അല്പം കൂടി മാറുകയോ മൊത്തത്തിലുള്ള ലൂപ്പ് ഘട്ടം അല്പം മാറുകയോ ചെയ്താലും ലൂപ്പ് ഓസിലേറ്റ് ചെയ്യില്ല കാരണം നമ്മൾ കൺട്രോളറുകൾ കണക്കാക്കാൻ പോകുന്ന പ്രോസസ്സ് മോഡലുകൾ കൃത്യമായിരിക്കില്ല അതിനാൽ കൺട്രോളർ ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ സാധാരണ പരിഗണിക്കപ്പെടുന്ന ചില ലളിതമായ പ്രതികരണ പാരാമീറ്ററുകളും സ്ഥിരത പാരാമീറ്ററുകളും നിങ്ങൾക്കറിയാം അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഉദാഹരണത്തിന് എനിക്ക് ഇങ്ങനെ ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടെന്ന് കരുതുക KP 1 STp ഞാൻ വളരെ ലളിതമായ ഉദാഹരണങ്ങൾ പരിഗണിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ സങ്കീർണ്ണമായ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ പ്രക്രിയയുടെ പരിഹാരം കൂടുതൽ സങ്കീർണ്ണമാവുകയും പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് സംഖ്യാ നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്നാൽ ചുരുക്കത്തിൽ രീതി അതേപടി തുടരുന്നു ഞാൻ ഇതിനകം ഒരു PI കണ്ട്രോളർ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും Kc എന്നിവയുടെ മൂല്യം സജ്ജമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക Ti എന്റെ മാനദണ്ഡം ക്വാർട്ടർ ഡികെയ് റേഷ്യോ ആണെന്ന് കരുതുക അതായത് രണ്ടാമത്തെ ഓവർഷൂട്ടിന്റെ ആദ്യ ഓവർഷൂട്ടിന്റെ അനുപാതം 0 25 ആയിരിക്കും അതിനാൽ ഡികെയ് റേഷ്യോ യഥാർത്ഥത്തിൽ ഈ ഫോർമുല നൽകിയതാണെങ്കിൽ ഈ മൂല്യം 0 25 ൽ കുറവായിരിക്കണം ഡികെയ് റേഷ്യോ ലോഗ് എന്ന് പറഞ്ഞ് നമുക്ക് പരിഹാരങ്ങളുടെ കാര്യങ്ങൾ ലളിതമാക്കാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം നമുക്ക് ഈ ഭാഗത്ത് ലോഗ് എടുക്കാം ഡികെയ് റേഷ്യോന്റെ ln ഏകദേശം നാലിലൊന്ന് തുല്യമാണ് അതിനാൽ ln 14 ന് ഇത്തുല്യമാകും അതിനാൽ ഫംഗ്ഷന്റെ മൂല്യം ln 14 കാൾ കുറവായി ആയി വരണമെങ്കിൽ ഞാൻ പ്രധാനമായും കണ്ടെത്തേണ്ടത് ζ എന്നതിൻറെ മൂല്യം എന്തായിരിക്കണം അപ്പോൾ എന്താണ് ζ അതിനാൽ ഞാൻ GGc 1GGc കണക്കുകൂട്ടിയാൽ ചില പാരാമീറ്ററുകൾ ഡിനോമിനേറ്ററിൽ ലഭിക്കും അതായത് S2 2ζ ωnS ωn2 ζ ωn ഈ പാരാമീറ്ററുകളുടെ ഒരു ഫംഗ്ഷൻ കൂടിയാണ് ζ എന്ന പദം Ti Kc ഈ പാരാമീറ്ററുകളുടെ ഒരു ഫംഗ്ഷൻ കൂടിയാണ് നിങ്ങൾ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അതാണ് നമുക്ക് Kc Ti എന്നിവയുടെ ഫംഗ്ഷൻ ഇൻറെ ഒരു സമവാക്യം ലഭിക്കും അത് ln ന്14 അത്തുല്യമാണ് ഇപ്പോൾ നമുക്ക് ഒരു സമവാക്യം ലഭിച്ചു പക്ഷേ രണ്ട് പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ വ്യക്തമായും നമുക്ക് ഒരു അദ്വിതീയ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല യഥാർത്ഥത്തിൽ നിരവധി പരിഹാരങ്ങളുണ്ട് അതിനാൽ അദ്വിതീയ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമുക്ക് മറ്റ് ചില മാനദണ്ഡങ്ങൾ ആവശ്യമാണ് അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ മറ്റ് ചില മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ അധികമായി പരിഗണിക്കുകയാണെങ്കിൽ Kc നിർണ്ണയിക്കാൻ നമുക്ക് മറ്റൊരു മാനദണ്ഡം ആവശ്യമാണ് എനിക്ക് വിവിധതരം മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് എനിക്ക് തിരഞ്ഞെടുക്കാനാകുന്ന ഒരു മാനദണ്ഡം ഏറ്റവും ചെറിയ ഓവർഷൂട്ട് ആണ് Kc യുടെ മൂല്യം ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അത് Tiയുടെ ഒരു നിശ്ചിത മൂല്യത്തിന് ഏറ്റവും കുറഞ്ഞ ഓവർഷൂട്ട് നൽകുന്നൽതാവും ഓവർഷൂട്ട് അതിവേഗം ഡികെയ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നത് മാത്രം അല്ല ആദ്യത്തെ ഓവർഷൂട്ട് ചെറുതായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കുറഞ്ഞ സെറ്റിലിംഗ് സമയത്തിനുള്ളിൽ ഞാൻ എത്തിച്ചേരും ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഓവർഷൂട്ട് ഫംഗ്ഷൻ എടുക്കും തുടർന്ന് Kcയുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്തതിനുശേഷം പൂജ്യമായി സജ്ജമാക്കും അത് എനിക്ക് മറ്റൊരു സമവാക്യം തരും ഇപ്പോൾ എനിക്ക് രണ്ട് സമവാക്യങ്ങളുണ്ട് എനിക്ക് രണ്ട് അജ്ഞാതങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് Kc Ti എന്നിവയ്ക്കായി പരിഹരിക്കാനാകും അതിനാൽ ഇത് ക്ലോസ്ഡ് ലൂപ്പ് ഫംഗ്ഷന്റെ സവിശേഷതകൾ വ്യക്തമാക്കുകയും അജ്ഞാത പദങ്ങളിലൂടെ അവ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് ഗെയിൻ തുടർന്ന് PID ക്രമീകരണത്തിന്റെ വിവിധ സമയങ്ങൾ ആ സമവാക്യങ്ങളിലൂടെ പരിഹരിക്കുക ഇതാണ് അത്യാവശ്യ നടപടിക്രമം അതിനാൽ ഇവ നേരിട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് മാത്രമല്ല ഓവർഷൂട്ട് അല്ലെങ്കിൽ സെറ്റിലിംഗ്Isettling സമയം അല്ലെങ്കിൽ ഡികെയ് റേഷ്യോ എന്നിവ കണക്കിലെടുത്ത് നമ്മൾ എല്ലായ്പ്പോഴും അവ പറയാൻ പോകുന്നില്ല നിയന്ത്രണ പാരാമീറ്റർ പ്രകടനം വ്യക്തമാക്കാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ട് കൂടാതെ സംഖ്യാശാസ്ത്രപരമായി നമ്മൾ വിവിധ പാരാമീറ്ററുകൾ പരിഹരിക്കേണ്ടതുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവ വിശകലനപരമായി പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല ചില അപൂർവ കേസുകൾ സ്വീകരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഇന്റഗ്രൽ സ്ക്വയർ പിശക് തിരഞ്ഞെടുക്കാം ഒരു സ്റ്റെപ്പ് റസ്പോൺസ് സൃഷ്ടിച്ചതിനുശേഷം പിശക് ഉണ്ടാകും അതിനാൽ ഞാൻ പിശക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അത് ഒടുവിൽ പൂജ്യമാകും അപ്പോൾ ഞാൻ അത്തരം ഗെയിൻ ഇൻറെ മൂല്യങ്ങൾ തിരഞ്ഞെടുക്കണം അതായത് ഈ ഫംഗ്ഷൻ ഏറ്റവും കുറവായിരിക്കണം ഇപ്പോൾ ഞാൻ എന്തിനാണ് പിശകിന്റെ ഒരു സ്ക്വയർ തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ട് പിശകിന്റെ ഒരു ക്യൂബ് അല്ലെങ്കിൽ എന്തുകൊണ്ട് പിശകിന്റെ 4 മതത്തെ പവർ എടുക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ കാരണം സാധാരണയായി പിശകുകളുടെ സ്ക്വയർ വളരെ ജനപ്രിയമാണ് ആദ്യത്തേത് പിശകിന്റെ സ്ക്വയർ നമുക്ക് ഉയർന്ന പിശകുകൾ തീർക്കാനാകും അതായത് നിങ്ങൾ 2 തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നാല് തവണ ലഭിക്കും നിങ്ങൾ 4 തെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് പിശക് മാഗ്നിറ്റ്യൂഡ് ഇരട്ടിയായാൽ കുറയ്ക്കേണ്ട നിയന്ത്രണ പ്രകടന മാനദണ്ഡം നാല് മടങ്ങ് മുകളിലേക്ക് പോകും നിങ്ങൾ മൂന്ന് തവണ ചെയ്താൽ അത് ഒൻപത് മടങ്ങ് മുകളിലേക്ക് പോകും അതിനർത്ഥം നമ്മൾ വലിയ പിശകുകൾക്ക് കനത്ത ശിക്ഷ നൽകുന്നു എന്നാണ് അതിനാൽ വലിയ പിശകുകൾക്ക് കനത്ത ശിക്ഷ നൽകാൻ നമ്മൾ താൽപ്പര്യപ്പെടുമ്പോൾ നമ്മൾ സാധാരണയായി ഇ യുടെ പവർ തിരഞ്ഞെടുക്കുന്നു കൂടാതെ സ്ക്വയർ തിരഞ്ഞെടുക്കാനുള്ള കാരണം സ്ക്വയർ മാനദണ്ഡങ്ങൾ സാധാരണയായി നല്ല പരിഹാരങ്ങളിലേക്ക് നയിക്കുന്നു സ്ക്വയറിനെ വേർതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ വളരെ എളുപ്പമുള്ള ലീനിയർ സമവാക്യങ്ങൾ ലഭിക്കും ചില സാഹചര്യങ്ങളിൽ വാട്ടർ ഡിസ്ചാർജ് സിസ്റ്റത്തിന്റെ പിഎച്ച് നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഉയർന്ന പിശകുകൾക്ക് വളരെയധികം പിഴ ഈടാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നമ്മൾ ആബ്സലൂറ്റ് പിശകുകളുടെ ഇന്റഗ്രൽ തിരഞ്ഞെടുക്കാം തുടക്കത്തിൽ പിശക് ഉണ്ടാകട്ടെ പക്ഷേ പിശക് നിലനിൽക്കാതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാക്കാം അതിനാൽ ഏത് സാഹചര്യത്തിലാണ് എനിക്ക് ഒരു ഇന്റഗ്രൽ ടൈം ആബ്സലൂറ്റ് എറർ എന്ന് അറിയപ്പെടുന്നത് തിരഞ്ഞെടുക്കാൻ കഴിയൂ സ്റ്റെപ്പ് മാറ്റത്തിന് ശേഷം ഒരു എറർ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കനത്ത പിഴ ഈടാക്കില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇത് പിന്നീട് സംഭവിക്കുകയാണെങ്കിൽ സമയം കൂടുന്തോറും അതേ അളവിലുള്ള പിശകുകൾക്ക് കൂടുതൽ പിഴ ഈടാക്കും അതിനാൽ നമുക്ക് വേണ്ടത് തുടക്കത്തിൽ നിങ്ങൾക്ക് വലിയ പിശകുകൾ പോലും വേണമെങ്കിലും ചില സമയത്തിനുള്ളിൽ സ്റ്റെപ്പ് മാറിയതിനുശേഷം പിശകുകൾ വേഗത്തിൽ 0 ആയി മാറണം അതിനാൽ പിശകുകൾ ദീർഘനേരം നിലനിൽക്കരുത് നമ്മൾ പറയുന്നത് ഇന്റഗ്രൽ സ്ക്വയർ പിശക് വലിയ പിശകുകളെ ശക്തമായി അടിച്ചമർത്തുന്നു ചെറിയ പിശകുകൾക്ക് ഇന്റഗ്രൽ ആബ്സലൂറ്റ് എറർ മികച്ചതാണ് കാരണം ഇ2ടി ഇതിലും ചെറുതായിത്തീരുന്നു അതിനാൽ ചെറിയ പിശകുകൾക്ക് പിഴ ഈടാക്കില്ല കൂടാതെ ITAE നമുക്ക്വേണ്ടത് വേഗത്തിൽ പിശകുകൾ സംയോജിക്കും എന്നതാണ് പിശകുകളുടെ ദീർഘകാല സ്ഥിരത നമ്മൾ അടിച്ചമർത്തുകയില്ല അതിനാൽ ഉദാഹരണത്തിന് ഇത് ഒരു സാധാരണ തരംഗ രൂപമാണ് ITAE അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നിയന്ത്രണ ലൂപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉയർന്ന ഓവർഷൂട്ട് ലഭിക്കാനിടയുണ്ട് പക്ഷേ ഇത് വേഗത്തിൽ പൂജ്യം ആവും കാരണം അതാണ് കനത്ത പിഴ ITAEയും ISEയും തമ്മിൽ താരതമ്യം ചെയ്താൽ ISEയിൽ പിശക് മാഗ്നിറ്റ്യൂഡുകൾ ITAEയേക്കാൾ കുറവായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം ISEക്ക് ധാരാളം വലിയ പിശകുകളുണ്ട് അവയ്ക്ക് കനത്ത പിഴ ഈടാക്കുന്നു അതിനാൽ പിശക് വളരെയധികം ഉയരുകയില്ല പക്ഷേ ഇത് വളരെ വേഗത്തിൽ വീഴുകയും ചെയ്യാം ഇത് താഴ്ന്ന നിലയിലെത്തുമ്പോൾ അത് വളരെക്കാലം നിലനിൽക്കും അതിനാൽ ഇതാണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങളുടെ പ്രകടന മാനദണ്ഡത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ലൂപ്പിൽ വ്യത്യസ്ത തരം ട്രാൻസിയൻറ്റ് പ്രകടനം നേടാൻ കഴിയും നമ്മൾ പ്രസ്താവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മാനദണ്ഡങ്ങളുണ്ട് ചിലപ്പോൾ മാനദണ്ഡങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാം നിങ്ങൾക്ക് ഉയർന്ന സമയം കുറയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവെ വളരെയധികം ഗെയിൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ ഗെയിൻ വളരെയധികം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഓവർഷൂട്ടുകൾ ഉണ്ടായിരിക്കും ഒരു ചെറിയ ഉയർച്ച സമയവും ചെറിയ ഓവർഷൂട്ടും പൊതുവെ വൈരുദ്ധ്യമുള്ള മാനദണ്ഡങ്ങളാണ് അതിനാൽ നിങ്ങൾ പല കേസുകളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുക എന്നത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ അസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചേക്കാം അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം ഉണ്ട് മിക്കപ്പോഴും നിങ്ങൾക്ക് സങ്കീർണ്ണമായ പ്രകടന മാനദണ്ഡമുള്ള സങ്കീർണ്ണമായ പ്രക്രിയകളുണ്ട് ഗെയിൻ ഇന്റെ കണക്കുകൂട്ടലിന് സാധ്യമായ ചില സ്ഥലങ്ങളിൽ പാരാമീറ്ററിന്റെ നല്ല മൂല്യത്തിനായി തിരയുന്ന അത്യാധുനിക ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ഉപയോഗിക്കുന്ന വലിയ അളവിലുള്ള ട്രയലും എറർ എറ്റവും ആവശ്യമായി വന്നേക്കാം നിങ്ങൾക്ക് നിർമ്മാതാക്കളിൽ നിന്ന് വിൽക്കുന്ന സോഫ്റ്റ്വെയറും വിവിധ തരം ട്യൂണിംഗ് സോഫ്റ്റ്വെയറുകളും ആവശ്യമാണ് ഇപ്പോൾ ഇവയെല്ലാം പൊതുവെ അനുമാനിക്കുന്നത് ആ മോഡൽ ഫോമുകൾ ലഭ്യമാണെങ്കിലും മിക്ക കേസുകളിലും നിങ്ങൾക്ക് ഒരു മോഡലിന്റെ ഫോം കൃത്യമായി നേടാനാകില്ല ചില ലളിതമായ മോഡൽ ഫോം ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ പ്രക്രിയയെ മാതൃകയാക്കണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം നടത്തി പ്രതികരണം കാണുകയും ആ പ്രതികരണത്തിന്റെ ചില സവിശേഷതകൾ അളക്കുകയും തുടർന്ന് അതിന്റെ കൺട്രോളർ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഓപ്പൺ ലൂപ്പ് പരീക്ഷണങ്ങൾ നടത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് ലൂപ്പ് പരീക്ഷണങ്ങൾ നടത്താം അതിനാൽ നമ്മൾഇവ രണ്ടും നോക്കാൻ പോകുന്നു ഉദാഹരണത്തിന് ഓപ്പൺ ലൂപ്പ് പരീക്ഷണത്തിന്റെ വളരെ ജനപ്രിയമായ മാർഗ്ഗം റീയാക്ഷൻ കർവ് ആണ് ഈ ആകൃതിയാണെന്ന് കരുതപ്പെടുന്ന ഓപ്പൺ ലൂപ്പ് പ്ലാന്റ് നിങ്ങൾ എടുക്കുന്നു പക്ഷേ ഇത് നേരിട്ട് പരീക്ഷണത്തിലല്ല ഈ ഫോം ഉപയോഗിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് പരീക്ഷണം നടത്തുന്നു ഔട്ട്പുട്ട് ഇതുപോലെ ഉയരും ഈ മോഡലിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് പരിഗണിക്കുകയാണെങ്കിൽ സംഖ്യാശാസ്ത്രപരമായി നിങ്ങൾ ഈ മോഡൽ കണ്ടെത്തുന്നു ഈ ഇ എസ്ടി ടേം കാരണം ഈ സ്റ്റെപ്പ് റെസ്പോൺസ് ഒരു സമയത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഉയരും തുടർന്ന് ഇത് ആദ്യത്തെ ഓർഡർ സിസ്റ്റംപോലെ ഉയരും k 1 sτ അതിനാൽ ഈ വരിയുടെ ചരിവ് K M അതായത് M K അല്ലെങ്കിൽ τ K M ആയിരിക്കും അതിനാൽ ഒരു പരീക്ഷണം നടത്തി പ്ലാന്റ് ഈ രൂപത്തിലുള്ളതാണെന്ന് കരുതുക ഇത് യഥാർത്ഥത്തിൽ പല പ്ലാന്റ് കൾക്ക് അ ന്യായമായ ഏകദേശക്കണക്കാണ് തുടർന്ന് td യുടെ മൂല്യം എന്താണെന്ന് അളക്കുക അപ്പോൾ ചരിവ് M ന്റെ മൂല്യം എന്താണ് ഇത് M ന്റെ ചരിവിനേയും അവസാന സെറ്റിലിംഗ് മൂല്യത്തേയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് നമുക്ക് കെ യുടെ മൂല്യം നൽകും അതിനാൽ ഇപ്പോൾ പരീക്ഷണത്തിന് ശേഷം നമുക്ക് td യുടെ മൂല്യം അറിയാം നമുക്ക് ഈ K അറിയാം കൂടാതെ ഈ M നിങ്ങൾക്ക് അറിയാം ആളുകൾക്ക് വിവിധതരം എമ്പിറികൽ റൂൽസ് ഉണ്ട് എമ്പിറികൽ റൂൽസ് എന്നതിനർത്ഥം പ്രോസസ്സ് കൺട്രോൾ വിദഗ്ധർ അവരുടെ അനുഭവത്തിലൂടെ അനേകം അനുകരണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ചെയ്തു യഥാർത്ഥ പരീക്ഷണങ്ങൾ അവർ ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട് കെ യുടെ മൂല്യം എം ഇൻറെ മൂല്യം ടിഡി യുടെ മൂല്യം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ ഒരു പി കൺട്രോളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നേട്ടത്തിന്റെ മൂല്യം ഉപയോഗിക്കുക നിങ്ങൾ ഒരു PI കൺട്രോളർ ഉപയോഗിക്കുകയാണെങ്കിൽ K യുടെ ഈ മൂല്യവും TI ന്റെ ഈ മൂല്യവും ഉപയോഗിക്കുക അതിനാൽ ചില നിയമങ്ങളുണ്ട് അവ വിശകലനപരമായി ഉരുത്തിരിഞ്ഞതല്ല പക്ഷേ അനുഭവപരമായി ഉരുത്തിരിഞ്ഞതാണ് അതിനാൽ അനുഭവപരമായി അർത്ഥമാക്കുന്നത് പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണം നടത്തുക മാത്രമല്ല അവ വിശദീകരിക്കാൻ കഴിയില്ല സീഗ്ലർ നിക്കോൾസ്Ziegler Nichols പോലെ വളരെ പ്രസിദ്ധമായ നിയമങ്ങളുണ്ട് സ്സീഗ്ലർ നിക്കോൾസ്Ziegler Nichols ട്യൂണിംഗ് റൂൾ പറയുന്നത് നിങ്ങൾ ഈ പരീക്ഷണം നടത്തുകയും നിങ്ങൾ ഒരു പിഐ കൺട്രോളർ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ Kp നേട്ടത്തിന്റെ മൂല്യം ഇത്രയും ആയിരിക്കണം ടിഐ യുടെ മൂല്യം ടിഡി അനുസരിച്ച് നൽകണം ഇതാണ് നന്നായി പ്രവർത്തിക്കുമെന്ന് സീഗ്ലർ നിക്കോൾസ് കണ്ടെത്തിയത് വ്യക്തമായും ഇത് എല്ലായിടത്തും നന്നായി പ്രവർത്തിക്കില്ല അതിനാൽ വിവിധ ആളുകൾ വിവിധ കാര്യങ്ങൾ പറയും അതിനാൽ നമുക്ക് മറ്റ് പലതരം നിയമങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് കോഹൻ കൂൺ റൂൾ എന്നറിയപ്പെടുന്ന മറ്റൊരു റൂൾ നമുക്ക് ഇതുപോലെ കാണാനാകും സീഗ്ലർ നിക്കോൾസ്Ziegler Nichols പറഞ്ഞ ഒരേയൊരു കാര്യം Kp കെപി ഇത്രയും ആയിരിക്കണം എന്നതാണ് ഇപ്പോൾ കോഹനും കൂനും യഥാർത്ഥത്തിൽ മറ്റൊരു പദം ചേർക്കുന്നു അതിനാൽ ഈ tdകൂടാതെ അദ്ദേഹം ഇവിടെ ഒരു ഘടകം ചേർക്കുന്നു വിവിധ തരത്തിലുള്ള അനുഭവ നിയമങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നത് ഒരാൾ തിരിച്ചറിയണം നിങ്ങൾ ചില നല്ല പാരാമീറ്ററുകൾക്കായി തിരയുന്നു നമുക്ക് കെപി ടിഡി ടിഐ KP td and TI സ്പേസ് എന്നിവയിൽ പറയാം പാരാമീറ്ററിന്റെ ഏറ്റവും മികച്ച മൂല്യം യഥാർത്ഥത്തിൽ ഇവിടെയാണെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇടം സമഗ്രമായി തിരയാൻ കഴിയും ഒടുവിൽ നിങ്ങൾ അത് കണ്ടെത്തുകയും ചെയ്യും അതാണ് പാരാമീറ്ററിന്റെ ഏറ്റവും മികച്ച മൂല്യം അത് വളരെ ചെലവേറിയതാണ് അതിനാൽ ലളിതമായ ഒരു ചട്ടം ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരയാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഒപ്റ്റിമൽ മൂല്യത്തിന് വളരെ അടുത്തായിരിക്കാൻ സാധ്യതയുള്ള ഒരു മൂല്യം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ തിരയൽ എളുപ്പമാകും എന്നതാണ് ആശയം നിങ്ങൾക്ക് വേഗത്തിൽ ഒപ്റ്റിമലിലേക്ക് എത്തിച്ചേരാം സീഗ്ലർ നിക്കോൾസ്Ziegler Nichols കോഹൻ കൂൺ തരത്തിലുള്ള നിയമങ്ങളുടെ ഗുണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരയൽ ആരംഭിക്കാം തുടർന്ന് നീണ്ട തിരയലിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയെത്താം ഈ നിയമങ്ങൾ ആ മനോഭാവത്തിൽ എടുക്കേണ്ടതാണ് മാത്രമല്ല അവ സാധാരണയായി മൂല്യങ്ങൾക്കായി ഒരു നല്ല നിഗമനം നൽകുന്നു നിങ്ങളുടെ പ്രോസസ്സിനായി ഈ നല്ല കൺട്രോളർ പാരാമീറ്ററുകൾ ലഭിക്കുന്നതിന് നിങ്ങൾ കുറച്ച് ട്യൂണിംഗ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ ഓപ്പൺ ലൂപ്പ് പ്രക്രിയയുടെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമേ ആവശ്യമുള്ളൂ എന്നതാണ് ഒരിക്കൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നൽകി മൂല്യങ്ങൾ ശേഖരിക്കുക ട്രയലും പിശകും ആവശ്യമില്ല ചില പ്രോസസ്സുകൾക്ക് ലൂപ്പ് തുറക്കാൻ കഴിയില്ല ഇത് ഒരു വലിയ പ്രശ്നമാണ് കാരണം ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ ലൂപ്പ് പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ചില പ്രോസസ്സുകൾ ഇതിനകം ക്ലോസ്ഡ് ലൂപ്പിൽ ഉണ്ട് നിങ്ങൾക്ക് അവ തുറക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഇത് ബാധകമല്ല ചിലപ്പോൾ ഈ ചരിവുകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നോയിസ് ഉണ്ടാകുമ്പോൾ ഡാറ്റയിൽ നിന്ന് ചരിവ് കണ്ടെത്തുന്നത് വളരെ സങ്കീർണ്ണമാണ് മാത്രമല്ല നിങ്ങൾ ചില നല്ല ഏകദേശ നടപടിക്രമങ്ങൾ ഉപയോഗിക്കേണ്ടിവരാം അവസാനമായി ഈ നടപടിക്രമം ബാധകമാകുന്നത് ഓവർ ഡാംപ്പഡ് പ്രോസസ്സുകൾക്ക് അല്ലാത്ത അണ്ടർ ഡാംപ്പഡ് പ്രോസസ്സുകൾക്ക് മാത്രമാണ് അതിനാൽ കെ ടിഡി എംKTd and M എന്നിവയുടെ ചില മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും അണ്ടർ ഡാംപ്പഡ് പ്രക്രിയയിൽ നിങ്ങൾക്ക് ഓപ്പൺ ലൂപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് നടപടിക്രമം ആവശ്യമാണ് ക്ലോസ്ഡ് ലൂപ്പ് നടപടിക്രമം പ്രധാനമായും ട്രയലും പിശകും ഉൾപ്പെടുന്ന ഒരു ആവർത്തന പ്രക്രിയയാണ് അതിനാൽ ആദ്യം ലൂപ്പ് സ്ഥിരതയുള്ള അവസ്ഥയിൽ നേടുക അല്ലെങ്കിൽ ലൂപ്പ് ഇതിനകം തന്നെ സ്ഥിരതയുള്ള അവസ്ഥയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം തുടർന്ന് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് മോഡുകളുടെ പ്രവർത്തനം കുറയ്ക്കുക ഇന്റഗ്രൽ ഡെറിവേറ്റീവ് നേട്ടങ്ങൾ കുറയ്ക്കുക ആവശ്യമെങ്കിൽ KP കുറയ്ക്കുകയും അങ്ങനെ ലൂപ്പ് സ്ഥിരമായിരിക്കും ഇപ്പോൾ സെറ്റ് പോയിന്റിൽ ഒരു സ്റ്റെപ്പ് മാറ്റം വരുത്തുക അതിനാൽ പ്രോസസ് ലൂപ്പ് ഉയരുന്നു അത് കുറയുന്നു സൈക്കിൾ ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ PB കുറയ്ക്കുന്നു പിബി കുറയ്ക്കുക എന്നതിനർത്ഥം ഗെയിൻ വർദ്ധിപ്പിക്കുക എന്നാണ് അതിനാൽ നിങ്ങൾ ഗെയിൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഗെയിൻ മാർജിൻ കുറയ്ക്കും അതായത് പ്രക്രിയ ഒരു ഓസിലേഷൻ നോട് അടുക്കും അടുത്ത തവണ നിങ്ങൾ ഗെയിൻ കുറയ്ക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു സ്റ്റെപ്പ് നൽകും അതിനാൽ നിങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുക തുടർന്ന് നിങ്ങൾ മറ്റൊരു സ്റ്റെപ്പ് മാറ്റം വരുത്തുകയും അത് നെഗറ്റീവ് ദിശയിലായിരിക്കാം ഈ ലൂപ്പ് കൂടുതൽ നേരം നിലനിൽക്കുന്നതായിരിക്കാം അതിനാൽ ഇത് ഇല്ലാതാകും വീണ്ടും മൂന്നാം ഘട്ടത്തിലേക്ക് പോകുക തുടർന്ന് ഗെയിൻ കുറച്ച് കുറയ്ക്കുകയും സെറ്റ് പോയിന്റുകളിൽ ഒരു സ്റ്റെപ്പ് മാറ്റം വരുത്തുകയും ചെയ്യുക ലൂപ്പ് ഓസിലേറ്റ് ചെയ്യുന്നതുവരെ ഇത് ചെയ്യുക അളവെടുക്കൽ ചക്രങ്ങൾ സ്ഥിരമായ കാലഘട്ടവും വ്യാപ്തിയും ഉള്ളതാണെങ്കിൽ ഈ കാലയളവും PB മൂല്യവും ശ്രദ്ധിക്കുക പ്ലാൻറ് ഓസിലേറ്റ് ചെയ്യുന്ന ഗെയിൻ അൽറ്റമറ്റ് ഗെയിൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂല്യങ്ങൾ ലഭിച്ചു ഒന്ന് ഈ പിബി ആണ് അതായത് അൽറ്റമറ്റ് ഗെയിൻ മറ്റൊന്ന് പിറീഡ് to ആണ് ഇവയെ അടിസ്ഥാനമാക്കി വീണ്ടും എമ്പിറികൽ സൂത്രവാക്യം ഉണ്ട് ഉദാഹരണത്തിന് സീഗ്ലർ നിക്കോൾസ്Ziegler Nichols പറയുന്നത് നിങ്ങൾ PB യുടെ ഒരു പ്രത്യേക മൂല്യം കണ്ടെത്തി τ0 ന്റെ ഒരു പ്രത്യേക മൂല്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു PI നിയന്ത്രണത്തിനായി പ്രൊപോഷണൽ ബാൻഡ് മൂല്യം ഈ മൂല്യത്തിന്റെ 2 2 ഇരട്ടിയായി TI സജ്ജമാക്കുക ഈ മൂല്യം പരീക്ഷണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന തികച്ചും എമ്പിറികൽ ആണ് അതുപോലെ മറ്റ് ഒരു പ്രോസസ്സ് കൺട്രോൾ വിദഗ്ധൻ ഷിൻസ്കി പറയുന്നു ഈ രണ്ട് ഗെയിൻ തിരഞ്ഞെടുക്കുക അതിനാൽ ഈ സവിശേഷതകളിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ ഗെയിൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ സമയ കോൺസ്റ്റൻന്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഗെയിൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സമയ കോൺസ്റ്റൻന്റ് അതിനാൽ നിങ്ങൾക്ക് ഒരു വലിയ ഗെയിൻ ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയ സമയ കോൺസ്റ്റൻന്റ് ഉണ്ട് വലിയ ഗെയിൻ ഒരു ചെറിയ സമയ സ്ഥിരാങ്കവുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത പ്രോപ്പർട്ടികൾ ലഭിക്കും ഈ ക്ലോസ്ഡ് ലൂപ്പ് രീതികളുടെ വിലയിരുത്തലിനായി ചില ട്രയലും പിശകും ആവശ്യമാണ് അതിനാൽ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ലഭിച്ച ക്രമീകരണങ്ങളെ മികച്ച ആദ്യ എസ്റ്റിമേറ്റുകളായി കണക്കാക്കുകയും കൂടുതൽ ട്രയലും പിശകും കണക്കാക്കുകയും ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് അൽപ്പം ട്യൂൺ ചെയ്യാനും നിങ്ങൾക്ക് ഇനിയും മികച്ച പ്രകടനം ലഭിക്കുന്നുണ്ടോയെന്നും കാണാനും ആ മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാനുമാകും ഇപ്പോൾ ചിലപ്പോൾ തുടർച്ചയായി പിബി വർദ്ധിപ്പിച്ച് ലൂപ്പ് സൈക്കിൾ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സൈക്കിളിന്റെ വ്യാപ്തി വർദ്ധിച്ചേക്കാം ഒരു പ്രക്രിയ ആന്ദോളനം ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അതായത് സൈക്ലിംഗ് വ്യാപ്തിയും കാലഘട്ടവും യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാൽ അത് വിനാശകരമായിരിക്കാം കാരണം ഒരു പ്രക്രിയ വളരെ വലിയ വ്യാപ്തിയോടെ സൈക്കിൾ ചെയ്യാൻ അനുവദിച്ചേക്കില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നല്ല നടപടിക്രമമുണ്ട് ഇത് ഇതുപോലുള്ള നിയന്ത്രണ ലൂപ്പ് സജ്ജമാക്കുക നിങ്ങൾക്ക് ഒരു സാധാരണ PID കൺട്രോളർ ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് ഹിസ്റ്റെറിസിസ് ഉള്ള ഒരു റിലേയും ഉണ്ട് പിശക് പോസിറ്റീവ് ആയാൽ റിലേ ഒരു ദിശയിലേക്ക് മാറുമെന്ന് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് നെഗറ്റീവ് ആണെങ്കിൽ അത് മറ്റൊരു ദിശയിലേക്ക് മാറും ഈ റിലേകൾ കാരണം നിങ്ങൾ ഇപ്പോൾ സ്വിച്ച് ഉള്ള ഈ റിലേ ഉപയോഗിച്ച് പ്ലാന്റ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാൽ റിലേ തുടർച്ചയായി ടോഗിൾ ചെയ്യും അതിനാൽ റിലേ നിങ്ങൾക്ക് ഓസിലേറ്റിംഗ് ഇൻപുട്ട് നൽകും അതിനാൽ സംഭവിക്കുന്നത് പ്ലാന്റ് യഥാർത്ഥത്തിൽ ഉടനടി ഓസിലേറ്റ് ചെയ്യും എന്നതാണ് ഒരു ട്രയലും പിശകും ആവശ്യമില്ല കൂടാതെ റിലേയുടെ സവിശേഷതകളാൽ ആന്ദോളനത്തിന്റെ വ്യാപ്തി ഇപ്പോൾ നിയന്ത്രിക്കാനാകും ഓസിലേഷൻ നേരിട്ട് പ്രചോദിപ്പിക്കാനും അതിന്റെ വ്യാപ്തി നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു നല്ല സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്ക് ചെറിയ ഓസിലേഷൻ സൃഷ്ടിക്കാനും ഈ ഓസിലേഷൻ ന്റെ കാലഘട്ടം ശ്രദ്ധിക്കാനും കഴിയും വിശകലനത്തിലൂടെ അതിനെ ലീനിയർ നിയന്ത്രണത്തിലെ വിവരിക്കുന്ന ഫംഗ്ഷൻ വിശകലനം എന്ന് വിളിക്കുന്നു ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓസിലേഷൻ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനാകും കൂടാതെ റിലേ സ്വിച്ചിംഗുകൾ ആംപ്ലിറ്റ്യൂഡ് 2 ഡി ആണെങ്കിൽ അടച്ച ലൂപ്പ് ട്യൂണിംഗ് ഫോർമുല പ്രയോഗിക്കാൻ കഴിയുന്ന ആത്യന്തിക നേട്ടം നൽകാം ഇതിലൂടെ അതിനാൽ നിങ്ങൾ ഇപ്പോഴും അതേ ഗെയിൻ PB കണ്ടെത്തുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു പരീക്ഷണാത്മക നടപടിക്രമം ഉപയോഗിക്കുന്നു ഇത് നിയന്ത്രിക്കാവുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ ഒരു ഷോട്ടിൽ ഒരു ഓസിലേഷൻ സജ്ജമാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അതാണ് വലിയ ഗെയിൻ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവ എളുപ്പത്തിൽ പ്രയോഗിച്ച് നേട്ടം നേടാനാകും ആളുകൾ ഇത് വാണിജ്യപരമായി പിഐഡി കൺട്രോളറിൽ നടപ്പിലാക്കിയതിനാൽ പ്രക്രിയ പുനസ്ഥാപിക്കേണ്ടതുണ്ടെന്ന് ഓപ്പറേറ്റർക്ക് തോന്നുമ്പോഴെല്ലാം പ്രോസസ്സ് റിലേയിലേക്ക് ക്ഷണനേരത്തേക്ക് ഫ്ലിക്കുചെയ്യാനും ഉടനടി ഒരു ഓസിലേഷൻ സജ്ജമാക്കാനും കഴിയും ആന്ദോളനത്തിന്റെ വ്യാപ്തിയും ഓസിലേഷൻ ന്റെ കാലഘട്ടവും ശ്രദ്ധിക്കുന്നതിലൂടെ ഗെയിൻ വേഗത്തിൽ സജ്ജമാക്കാൻ കഴിയും അതിനാൽ പ്രത്യേക പരീക്ഷണം ആവശ്യമില്ല തുടർന്ന് ഒരു പുഷ് ബട്ടണിന്റെ ഫ്ലിക്ക് ഉപയോഗിച്ച് യാന്ത്രികമായി കൺട്രോളർ ട്യൂൺ ചെയ്യാൻ കഴിയും അതിനാൽ ഇതിനെ ഓട്ടോ ട്യൂണിംഗ് എന്ന് വിളിക്കുന്നു മുഴുവൻ ട്യൂണിംഗ് പ്രക്രിയയും യാന്ത്രികമാക്കി ഇത് നമ്മളുടെ പാഠത്തിന്റെ അവസാനമാണ് നമ്മൾ അടിസ്ഥാനപരമായി അവലോകനം ചെയ്തത് നിയന്ത്രണ ലൂപ്പുകളുടെ വിവിധ പ്രകടന മാനദണ്ഡങ്ങളാണ് ഒരു പ്രോസസ്സ് മൊഡ്യൂൾ ഓപ്പൺ ലൂപ്പ് പ്ലാന്റ് മോഡലും റഫറൻസ് മോഡലും അടിസ്ഥാനമാക്കി കൺട്രോളർ ക്രമീകരണങ്ങളുടെ നേരിട്ടുള്ള കണക്കുകൂട്ടൽ രീതി നമ്മൾ കണ്ടു പ്ലാന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഓപ്പൺ ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പ് പരീക്ഷണങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ചില എമ്പിറികൽ ട്യൂണിംഗ് നിയമങ്ങൾ നമ്മൾ കണ്ടെത്തി ഒടുവിൽ ഓട്ടോ ട്യൂണിംഗ് എന്ന ഒരു നടപടിക്രമം നമ്മൾ കണ്ടു അവിടെ നമുക്ക് വേഗത്തിലും സ്വപ്രേരിതമായും ഒരു പരീക്ഷണം നടത്താനും കൺട്രോളർ ക്രമീകരണങ്ങൾ കണ്ടെത്താനും കഴിയും അതിനാൽ നമ്മൾ ആലോചിക്കേണ്ട ചില പോയിന്റുകൾ P PI PID കണ്ട്രോളറുകൾ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം എല്ലാ ഉത്തരങ്ങളും ഈ പ്രഭാഷണത്തിൽ മാത്രമാണ് പ്രക്രിയകളുടെ സ്വന്തം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം ഏത് സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ടുള്ള സിന്തസിസ് നടപടിക്രമം പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രക്രിയകളിൽ പറയാം അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവയെല്ലാം പ്രയോഗിക്കാൻ കഴിയാത്തത് ക്ലോസ്ഡ് ലൂപ്പ് രീതിക്ക് എതിരായി ഓപ്പൺ ലൂപ്പ് രീതിയുടെ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് സൈറ്റ് ചെയ്യാൻ കഴിയും അവസാനമായി നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഒരു ഓട്ടോ ട്യൂണിംഗ് സവിശേഷത ആവശ്യമായി വരുന്നത് അത് എങ്ങനെ നേടാം ഒരു ഓട്ടോ ട്യൂണിംഗ് എങ്ങനെ നേടാം ഒരു നടപടിക്രമം ഇതിനകം പ്രഭാഷണത്തിൽ നൽകിയിരിക്കുന്നു ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു വളരെയധികം നന്ദി